നമുക്കപ്പോൾ റിസീവർ പാർട്ടിന്റെ കോഡ് നോക്കാം നമ്മൾ കണ്ടത് പോലെ റിസീവർ പാർട്ട് സെൻഡർനോട് വളരെ സാമ്യമുള്ളതാണ് നമ്മുക്കിവിടെയും ഈ മെമ്മറി അക്സസ്സ് ഉണ്ട് ഇത് ചെയ്തു തീർന്നതാണ് ഈ മെമ്മറി അക്സസ്സുകൾ സമയബന്ധിതമാണ് എന്നതാണ് ഇവിടെ പ്രധാന വ്യത്യാസം rdtsc എന്ന ഫങ്ക്ഷൻ ഉപയോഗിച്ചാണ് ടൈമിംഗ് നടത്തുന്നത് ഈ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് rdtsc ഫങ്ക്ഷൻ ടൈം സ്റ്റാമ്പ് റിട്ടേൺ ചെയ്യും ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷന് അവസാനവും ടൈം സ്റ്റാമ്പ് മെഷർ ചെയ്യും അങ്ങനെ എൻഡ് ൽ നിന്ന് സ്റ്റാർട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള സമയം ലഭിക്കും rdtsc ഫങ്ക്ഷൻ എല്ലാ ഇന്റെൽ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇന്റെൽ പ്രോസസ്സർ സപ്പോർട്ട് ചെയ്യുന്ന rdtsc ഇൻസ്ട്രക്ഷൻ ആണ് ഉപയോഗിക്കുന്നത് ഈ ഇൻസ്ട്രക്ഷൻ ടൈം സ്റ്റാമ്പ് കൌണ്ടർ റീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് എല്ലാ ഇന്റെൽ മെഷീനും 0 ൽ തുടങ്ങി ഓരോ ക്ലോക്ക് പൾസ്സിലും ഒന്നു കൂടുന്ന ഒരു 128 ബിറ്റ് കൌണ്ടർ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് rdtsc ഇൻസ്ട്രക്ഷൻ ഓരോ പ്രത്യേക ഇൻസിഡന്റിലും ടൈം സ്റ്റാമ്പ് കൌണ്ടർ റീഡ് ചെയ്യുന്നു 32 ബിറ്റും 64 ബിറ്റും ആയി നമുക്ക് rdtsc ഫങ്ക്ഷന്റെ രണ്ടു വേർഷൻ ഉണ്ട് നമ്മുടെ മെഷീനിൽ ഈ പ്രത്യേക കോവേർട് ചാനൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്കിതിലെ ഒരു ഫങ്ക്ഷൻ എനേബിൾ ചെയ്യാൻ സാധിക്കും അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ത്രെഷോൾഡ് എന്ന സംഗതിയെ കുറിച്ചാണ് ഈ 8 ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാനെടുക്കുന്ന സമയമാണ് ഏൻഡ് സ്റ്റാർട്ട് തരുന്നത് എന്നാൽ ഈ റെക്കോർഡ് ചെയ്ത സമയം വളരെ നോയ്സി ആയിരിക്കാം പേജ് ഫോൾട്ട് ഇന്ററപ്റ് മുതലായവ പോലുള്ള സംഗതികൾ പ്രോസെസ്സറിൽ ഉണ്ടാകുന്നതു മൂലമായിരിക്കാം നോയ്സ് ഉണ്ടാകുന്നത് ഇത് എന്തായാലും നീക്കം ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് സിസ്റ്റത്തിനനുസരിച്ചോ പ്രോസെസ്സറിനനുസരിച്ചോ ത്രെഷോൾഡ് വാല്യൂ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അത് വളരെ കൃത്യമാകേണ്ടതില്ല ഈ കോഡിൽ 1750 ആണ് ത്രെഷോൾഡ് ആയി എടുത്തിരിക്കുന്നത് ഇത് ഇന്ററപ്റ് കോൺടെക്സ്റ്റ് സ്വിച്ച് മുതലായവ മൂലമുണ്ടാകുന്ന നോയ്സ് നീക്കം ചെയ്യാൻ പര്യാപ്തമാണ് മാത്രമല്ല ക്യാഷെ ഹിറ്റുകളും ക്യാഷെ മിസ്സുകളും വേർതിരിച്ചറിയുന്നതിനും അനുവദിക്കപ്പെടുന്നതിനും പര്യാപ്തമായ വലിയ വാല്യൂവുമാണ് അത്കൊണ്ട് ത്രെഷോൾഡിനേക്കാളും കുറവായ ഏതെങ്കിലും ഒരു ടൈമിംഗിന് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബൂഷൻ ടേബിൾ നിലനിർത്തി എത്ര തവണ ഒരു പ്രത്യേക സമയം ഒബ്സർവ് ചെയ്തെന്നു കണ്ടെത്തും ഈ ഇറ്ററാക്ഷൻന്റെ അവസാനം ടൈം പീരീഡ് 2 24 ആണ് സെറ്റ് ചെയ്തിരുന്നതെന്ന് ഓർക്കണം ഒരു ക്യാഷെ ഹിറ്റോ ക്യാഷെ മിസ്സോ ഉണ്ടായിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ നമ്മൾ ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബൂഷൻ ടേബിൾ ആണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഒരു ക്യാഷെ മിസ്സ് സൂചിപ്പിക്കുന്നത് സെൻഡർ ഒരു പ്രത്യേക പോർട്ടിലൂടെ എന്തോ അയച്ചിട്ടുണ്ടെന്നാണ് അതായത് സെൻഡർ ആ കറസ്പോണ്ടിങ് സെറ്റിൽ നിന്ന് എന്തോ ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന അനുമാനിക്കാം ഡാറ്റ പുറന്തള്ളപ്പെട്ടതുകൊണ്ട് റിസീവർ അക്സസ്സ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ക്യാഷെ മിസ്സോ ഉണ്ടാകുന്നു മെമ്മറി അക്സസ്സ് പൂർത്തീകരിക്കുന്നതിന് L2 LLC പോലുള്ള ലോവർ ലെവൽ ക്യാഷെയിലോ DRAM ലോ പോകേണ്ടതുണ്ട് ഇത് സാധാരണയായി കുറച്ചധികം സമയമെടുക്കും ഈ സമയം ഫ്രീക്വൻസി ഡിസ്ട്രിബൂഷൻ ടേബിളിൽ കാണാവുന്നതാണ് ഇതുപോലെ 10 20 30 40 എന്നീ സെറ്റുകളുടെ ഫ്രീക്വൻസി ഡിസ്ട്രിബൂഷൻ നിരീക്ഷിച്ചുകൊണ്ട് സെൻഡർ എന്തുതന്നെ അയച്ചാലും റിസീവർക്ക് ഡെസിഫെർ ചെയ്യാൻ സാധിക്കും അതായതു 0 ആണോ 1 ആണോ എന്നും ഓഡ് ബിറ്റാണോ ഈവൻ ബിറ്റാണോ സെൻഡർ അയച്ചതെന്ന് കണ്ടുപിടിക്കാൻ കഴിയും ഇതുപോലെ ഈ കൊവേർട്ട് ചാനൽ ഉപയോഗിച്ച് രണ്ടു സ്വതന്ത്ര പ്രോസ്സെസ്സുകളായ സെൻഡറിനും റിസീവറിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു ഈ ഇൻഡയറക്റ്റ് ചാനലിന് അണ്ടർലൈൻഡ് പ്ലാറ്റ്ഫോം സജ്ജീകരിക്കുന്ന എല്ലാ സെക്യൂരിറ്റിയും ബേധിക്കാൻ സാധിക്കും ഇതുപോലുള്ള കൊവേർട്ട് ചാനലുകൾ ക്യാഷെയിൽ മാത്രമല്ല മറ്റു തലങ്ങളിലും അതായത് കീ സ്ട്രോക്സ് ഫയൽ സിസ്റ്റം പേജ് ഫോൾട്ട് പോലുള്ള സിസ്റ്റം ലെവൽ ഫീച്ചറുകളും സോഴ്സ് ആക്കാറുണ്ട്